തികച്ചും പൊരുത്തപ്പെട്ട ഇന്റർഫേസ് അതിനാൽ നമുക്ക് അതിന് എന്ത് മൂല്യങ്ങൾ ക്രമീകരിക്കാനാകുമെന്ന് നോക്കാം അതിനാൽ ഇപ്പോൾ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തത് പൊതുവായ കണ്ടെത്തലാണ് അതിനാൽ ഇപ്പോൾ നമ്മൾ തികച്ചും പൊരുത്തപ്പെടുന്ന ഇന്റർഫേസ് എന്നാൽ എന്താണെന്ന് കാണാൻ പോകുന്നു ഇത് പുനരവലോകനത്തിലൂടെയാണ് നമ്മൾ നോക്കുന്നത് അതിനാൽ എന്തായിരുന്നു നമ്മൾ ഇത് ഈ രീതിയിൽ നിർവചിച്ചിരുന്നു ഇതു മുൻപുള്ള കുറച്ച് സ്ലൈഡുകളിൽ ഉണ്ടായിരുന്നു ഇതിനുള്ള പ്രചോദനം എന്തായിരുന്നു എന്ന് ഓർക്കുക ഒരു ദീർഘവൃത്തത്തിന്റെ സമവാക്യമായിരുന്ന ആ സമവാക്യം 2 വീണ്ടും ഇവിടെ നമുക്ക് കാണാം കൂടാതെ ദീർഘവൃത്തത്തിന്റെ പരിഹാരം എനിക്ക് ഇവിടെ സെമി മേജർ സെമി മൈനർ അക്ഷങ്ങൾ എന്നിവയുടെ നീളം ഇതുപോലെ നൽകും അങ്ങനെ പാരാമട്രിക് രൂപത്തിൽ എനിക്ക് ഒരു ദീർഘവൃത്താകൃതി ലഭിച്ചു അങ്ങനെ ആകും അതിനാൽ നിങ്ങളുടെ സൌകര്യാർത്ഥം ഞാൻ ഇത് വീണ്ടും എഴുതുകയാണ് ഇത് ആണ് കൂടാതെ യും ആണ് പൊതുവായി ആയിരിക്കും അതിനാൽ ഇത് പൊതുവായ k യാണ് അതിനാൽ നമ്മൾ ഇത് ഓർക്കണം കാരണം 2 പ്രദേശങ്ങൾക്ക് വ്യത്യസ്ത ഉം യും ഉണ്ടായിരിക്കും അതിനാൽ ഇപ്പോൾ ഫേസ് മാച്ചിങ് അവസ്ഥ ആവശ്യമാണ് കാരണം ഫേസുകൾ എനിക്ക് ഒരേ വേഗതയിൽ തന്നെ ഭ്രമണം ചെയ്യണം അതിനാൽ നമുക്ക് അതിവിടെ മാറ്റി റിസ്ഥാപിക്കാം

നമ്മൾ ഇതിനെ തികച്ചും പൊരുത്തപ്പെട്ടത് എന്ന് വിളിക്കും തികച്ചും പൊരുത്തപ്പെട്ടത് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ ഇഷ്ടാനുസരണം ആണ് നമ്മൾ എന്നെടുക്കുന്നു അങ്ങനെ വേരിയബിളുകളുടെ എണ്ണം സമയം 0238 കാണുക കുറയ്ക്കാം അതിനാൽ ഇവ എന്തൊക്കെയാണ് ഇവിടെ യും യും എന്താണെന്ന് നിങ്ങൾ ആശയക്കുഴപ്പത്തിലാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അവ ഏതെങ്കിലും ഭൌതിക കോണുമായി പൊരുത്തപ്പെടുന്നുണ്ടോ ശരിയാകാം ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലായിടത്തും ആണ് നിങ്ങളുടെ സ്വതന്ത്ര ഇടമായ ലളിതമായ ഒരു സാഹചര്യം എടുക്കുക അപ്പോൾ ആയിരിക്കും അതിനാൽ z ആക്സിസിനും കോൺ തീറ്റയ്ക്കും ഇടയിൽ എനിക്ക് ഒരു തരംഗ വെക്റ്റർ ഉണ്ടെങ്കിൽ അത് എനിക്ക് തരംഗ വെക്റ്ററിന്റെ z ഘടകം നൽകുന്നു ഇപ്പോൾ പ്രദേശം I ലും പ്രദേശം II ലും ഉള്ള തരംഗങ്ങൾ ഒരേ കോണിൽ സഞ്ചരിക്കുമോ ഇല്ല അല്ലേ അതുകൊണ്ടാണ് ഞാൻ മേഖല I ലും മേഖല II ലും സ്ഥാപിച്ചത് കൃത്യമായ മൂല്യങ്ങൾ എന്താണെന്നതിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം അവ പ്രധാനമല്ല അതിനാൽ ഇതാണ് ആദ്യത്തെ വ്യവസ്ഥരണ്ടാമത്തെ അവസ്ഥ എനിക്ക് എന്താണ് നൽകാൻ പോകുന്നത്

അതിനാൽ എന്തുകൊണ്ടാണ് ഈ വസ്തുവിനെ തികച്ചും പൊരുത്തപ്പെടുന്ന ഇന്റർഫേസ് എന്ന് വിളിക്കുന്നത് കാരണം അക്ഷരാർത്ഥത്തിൽ ഇത് തികച്ചും പൊരുത്തപ്പെടുന്നതാണ് അതിനാൽ തികച്ചും പൊരുത്തപ്പെടുന്ന ഈ കാര്യങ്ങൾ കുറച്ച് സ്ലൈഡുകൾക്ക് മുൻപ് നമ്മൾ നിർവചിച്ചിരുന്നു എന്നാൽ അത് തികച്ചും പൊരുത്തപ്പെട്ട ഇന്റർഫേസിലായിരുന്നു ഫാൻസി PMI യെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയാതെ ഇന്റർഫേസ് തികച്ചും പൊരുത്തപ്പെടുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്തു കരുതും ഇംപിഡൻസുകൾ പൊരുത്തപ്പെട്ടിരിക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇംപിഡൻസുകളുമായി പൊരുത്തപ്പെടാനുള്ള ഏറ്റവും ലളിതമായ മാർഗം ഏതാണ് ആക്കുക എന്നതാണ് നമ്മൾ അത് ചെയ്യുന്നു എന്ന് കരുതുക അതിനാൽ അപ്പോൾ ഉണ്ടാകുന്ന ഈ സമവാക്യങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നു ഇനി എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുമോ അതിനാൽ നമ്മുടെ ലക്ഷ്യം എന്താണ് എന്താണ് PMI യുടെ ലക്ഷ്യം എന്തുകൊണ്ടാണ് നമ്മൾ ഇവയെല്ലാം ചെയ്യുന്നത് വിദ്യാർത്ഥി R0 R0 ശരിയാണ് അല്ലേ ഞാൻ ശരിയാക്കുകയാണെങ്കിൽ അതിനർത്ഥം ഇന്റർഫേസ് ഇല്ല എന്നാണോ ഇന്റർഫേസ് ഇല്ലെങ്കിൽ R 0 ആയിരിക്കും വിദ്യാർത്ഥി അതെ ശരിയാണ് നമ്മൾ അതിപ്പോൾ കാണണം എന്നാൽ ഓർക്കുക ഞാൻ ഇപ്പോൾ ഭൌതികമല്ലാത്ത അവസ്ഥയിലേക്കാണ് പോയത് കാരണം ഞാൻ ഈ e h എന്നിവ അവതരിപ്പിച്ചു അവ പ്രതിഫലന ഗുണകത്തിൽ പ്രത്യക്ഷപ്പെട്ടു അതിനാൽ എന്നത് ഈ പ്രതിഫലന ഗുണകം 0 ആണെന്ന് ഉറപ്പുവരുത്താൻ പര്യാപ്തമാണോ എന്ന് വ്യക്തമല്ല വസ്തുവിൻറെ സവിശേഷതകൾ മാറി വസ്തുവിൻറെ സവിശേഷതകൾ e h എന്നിവയിലൂടെ മാറിയിരിക്കുന്നു വിദ്യാർത്ഥി അപ്പോൾ അവിടെ ഒരു ഇൻറർഫേസ് ഉണ്ട് അവിടെ ഒരു ഇൻറർഫേസ് ഉണ്ട് ഞാനെൻറെ ഇൻറർഫേസിൻറെ ആശയം വിപുലീകരിച്ചതിനാലാണ് അവിടെ ഇൻറർഫേസ് ഉണ്ടായത്